നിരന്തരമായ വൈദ്യുതധാരയിൽ ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യുന്ന പദ്ധതി നമ്മൾ പഠിച്ചു അവിടെ ഡ്രെയിനിലെ വൈദ്യുതധാര വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുകയും അത് ഗേറ്റിലേക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ സോഴ്സിലെ കറന്റ് വ്യത്യാസം മനസിലാക്കുകയും അത് സോഴ്സിലേക്ക് തിരികെ നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതി നമ്മൾ പഠിക്കും തുടർന്ന് നമുക്ക് ട്രാൻസിസ്റ്റർ പരിഗണിക്കാം കറന്റ് സോഴ്സ് ഞാൻ ഇവിടെ സ്ഥാപിക്കും കാരണം സോഴ്സ് മനസിലാക്കാൻ ഞാൻ അത് സോഴ്സുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ അത് കൂടുതൽ സൌകര്യപ്രദമാണ് MOS ട്രാൻസിസ്റ്ററിലെ കറന്റ് ID ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒഴുകുന്നു ഇവിടെ സെൻസ് ചെയ്യുക ഞങ്ങൾ ഡ്രെയിൻ ഉപയോഗിക്കുന്നില്ല അതായതു സോഴ്സ് സെൻസ് ചെയ്ത് സോഴ്സിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നു ഡ്രെയിൻ ചില നിശ്ചിത വോൾട്ടേജുമായി ബന്ധിപ്പിക്കും ഇത് സപ്ലൈ വോൾട്ടേജ് VDD യുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ അനുമാനിക്കും പിന്നീട് സർക്യൂട്ട് ഉപയോഗിക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് മാറ്റേണ്ടിവരും പക്ഷേ ഇപ്പോൾ ഞാൻ ബയാസിങ് പരിഗണിക്കുകയും സപ്ലൈ വോൾട്ടേജ് VDD യുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും ഞങ്ങൾ ഒരു നിശ്ചിത വോൾട്ടേജിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇതിനെ VG0 എന്ന് വിളിക്കാം അതിനാൽ ആദ്യം എന്താണ് സംഭവിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതായത് ID I0 ന് തുല്യമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സ് വോൾട്ടേജ് Vs ആണ് ഇതും സിഗ്നൽ സോഴ്സ് വോൾട്ടേജും തമ്മിൽ ആശയക്കുഴപ്പത്തിലാകരുത് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സിഗ്നൽ സോഴ്സ് ഇല്ല അതിനാൽ ആശയക്കുഴപ്പം ഇല്ല എന്നാൽ രണ്ടും ഉള്ളപ്പോൾ അത് ആശയക്കുഴപ്പത്തിലാക്കരുത് ഞങ്ങൾക്ക് ഈ Vs ഉണ്ട് തുടർന്ന് ID I0 നേക്കാൾ കൂടുതലാണെന്ന് പറയട്ടെ അത് I0 ന് തുല്യമാകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു അതിനാൽ ID യുടെ മൂല്യം കുറയ്ക്കേണ്ടതുണ്ട് അതിനാൽ എന്താണ് സംഭവിക്കേണ്ടത് ദയവായി അത് വിശദീകരിക്കുക ഇപ്പോൾ ID കുറയ്ക്കണം അതായത് VGS കുറയ്ക്കണം വ്യക്തമായും ID VGS ന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയാണ് ID കുറയ്ക്കണമെങ്കിൽ VGS കുറയ്ക്കണം VGS തന്നെ VG0 ന് തുല്യമാണ് മൈനസ് Vs ഈ സർക്യൂട്ടിൽ നമുക്ക് മാറ്റാൻ കഴിയും അതിനാൽ Vs വർദ്ധിപ്പിക്കണം എന്നാണ് ഇതിനർത്ഥം അതിനാൽ ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിൻ കറന്റ് ആവശ്യമുള്ള വൈദ്യുതധാരയേക്കാൾ കൂടുതലാണെങ്കിൽ സോഴ്സ് വോൾട്ടേജ് വർദ്ധിപ്പിക്കണം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കുറയുകയും കറന്റ് കുറയുകയും ചെയ്യുന്നു കൂടാതെ ID I0 നേക്കാൾ ചെറുതായിരിക്കുമ്പോൾ നേരെ വിപരീതമായിരിക്കണം Vs കുറയുന്നതിനാൽ ഡ്രെയിൻ കറന്റ് വർദ്ധിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് വേണ്ട ഫീഡ്ബാക്ക് പ്രവർത്തനമാണിത് ഇപ്പോൾ ID I0 മായി താരതമ്യപ്പെടുത്തി നമ്മൾ ഫീഡ്ബാക്ക് പ്രവർത്തനം സൃഷ്ടിക്കുന്നു കറന്റ് ഇവിടെ ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒഴുകുന്നു ഒപ്പം നിശ്ചിത കറന്റ് സ്രോതസ്സും ഉണ്ട് താരതമ്യപ്പെടുത്തുന്നതിന് ഈ രണ്ട് വൈദ്യുതധാരകളും മുമ്പത്തെപ്പോലെ ഒരേ നോഡുമായി ബന്ധിപ്പിക്കുന്നു നേരത്തെ ഞങ്ങൾ കറന്റ് സോഴ്സ് ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിനിലേക്ക് ബന്ധിപ്പിച്ചിരുന്നു ഇപ്പോൾ ഞങ്ങൾ അത് ട്രാൻസിസ്റ്ററിന്റെ സോഴ്സ് മായി ബന്ധിപ്പിക്കുന്നു നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ID മൈനസ് I0 ഒഴുകുന്നു അത് എവിടെ പോകുന്നു അത് ആ നോഡുമായി ബന്ധപ്പെട്ട പാരാസൈറ്റിക് കപ്പാസിറ്ററിലേക്ക് പോകുന്നു ഇപ്പോൾ ഈ കണക്ഷൻ കാരണം എന്ത് സംഭവിക്കും ID I0 നേക്കാൾ കൂടുതലാണെങ്കിൽ അതിനർത്ഥം കപ്പാസിറ്ററിലേക്ക് ഒരു കറന്റ് പമ്പ് ചെയ്യപ്പെടുന്നു എന്നാണ് അതിനാൽ ആ ധ്രുവത്തിലെ കപ്പാസിറ്ററിലുടനീളം വോൾട്ടേജായ Vs വർദ്ധിക്കുന്നു അതുപോലെ ID I0 നേക്കാൾ ചെറുതാണെങ്കിൽ പാരാസൈറ്റിക് കപ്പാസിറ്ററിൽ നിന്ന് കറന്റ് പുറത്തെടുക്കുകയും വോൾട്ടേജ് കുറയാൻ തുടങ്ങുകയും ചെയ്യും അതിനാൽ ഇത് സംഭവിക്കുന്നത് കറന്റ് സോഴ്സ് ട്രാൻസിസ്റ്ററിന്റെ സോഴ്സുമായി ബന്ധിപ്പിക്കുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് I0 എന്ന സോഴ്സ് കറന്റ് സോഴ്സ് ട്രാൻസിസ്റ്ററിന്റെ സോഴ്സുമായി ബന്ധിപ്പിക്കുന്നതിലൂടെയാണ് ഇപ്പോൾ Vs നായി നമ്മൾക്ക് വേണ്ടത് ID I0 നേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ Vs വർദ്ധിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു അത് ഇതിനകം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല നമ്മൾ അങ്ങനെ കണക്റ്റുചെയ്തിട്ടുണ്ടെങ്കിൽ ID I0 നേക്കാൾ കൂടുതലാണെങ്കിൽ ഈ വോൾട്ടേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ VGS കുറയുകയും ID കുറയുകയും ചെയ്യും അതുപോലെ ID I0 നേക്കാൾ കുറവാണെങ്കിൽ ഈ വോൾട്ടേജ് കുറയുന്നു VGS വർദ്ധിച്ചുകൊണ്ടിരിക്കും കറന്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കും അതിനാൽ കറന്റ് സോഴ്സ് സോഴ്സുമായി ബന്ധിപ്പിക്കുന്നതൊടെ ഫീഡ്ബാക്ക് പ്രവർത്തനം പൂർത്തിയാക്കുന്നു എപ്പോഴാണ് അത് സ്ഥിരമായ അവസ്ഥയിലെത്തുന്നത് ഈ പാരാസൈറ്റിക് കപ്പാസിറ്ററിലേക്ക് ഒഴുകുന്ന കറന്റ് പൂജ്യത്തിലേക്ക് പോകുമ്പോഴാണ് അതായത് ID I0 ന് തുല്യമാകുമ്പോൾ അതിനാൽ സ്ഥിരമായ അവസ്ഥയിൽ ഐഡി I0 ന് തുല്യമാണ് അതിനാൽ ഈ രീതിയിൽ ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യാൻ അതായത് സോഴ്സ്നെ സെൻസ് ചെയ്യുകയും സോഴ്സിലേക്ക് ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്യുന്നതിന് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല കറന്റ് സോഴ്സ് ട്രാൻസിസ്റ്ററിന്റെ സോഴ്സ്മായി ബന്ധിപ്പിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ എന്ത്കൊണ്ടാണ് ഇത് ശരിക്കും പ്രവർത്തിക്കുന്നത് ട്രാൻസിസ്റ്റർ വൈദ്യുതധാരയുടെ നിയന്ത്രണ ഭാഗം അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അതിനാൽ ഇത് ഗേറ്റിനും സോഴ്സ്നും ഇടയിലാണ് നിയന്ത്രിത ഭാഗം അത് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് പോകുന്ന ഡ്രെയിൻ കറന്റാണ് സോഴ്സ് നിയന്ത്രിത ഭാഗവും കൂടാതെ ട്രാൻസിസ്റ്ററിന്റെ നിയന്ത്രണ ഭാഗവുമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും ഗേറ്റ് നിങ്ങൾക്ക് ഇതിൽ ഇൻപുട്ട് മാത്രമേ പ്രയോഗിക്കാൻ കഴിയൂ ഇതിന് നിയന്ത്രിക്കാൻ മാത്രമേ കഴിയൂ ഗേറ്റിൽ നിന്ന് ഒന്നും പുറത്തേക്കു വരില്ല അത് ഒരു ഔട്ട്പുട്ട് അല്ല അതുപോലെ ഡ്രെയിൻ ഇത് ഒരു ഔട്ട്പുട്ട് മാത്രമാണ് നമുക്ക് ഡ്രെയിനിലേക്ക് എന്തെങ്കിലും പ്രയോഗിക്കാൻ കഴിയില്ല അതേസമയം സോഴ്സ് നിയന്ത്രിക്കുന്ന ഭാഗത്തിനും നിയന്ത്രിത ഭാഗത്തിനും സമാനമാണ് അതിനാലാണ് ഒരു ട്രാൻസിസ്റ്റർ അതിന്റെ ഗേറ്റിനെ ഒരു നിശ്ചിത വോൾട്ടേജിൽ ബയസ് ചെയ്യുന്നത് ഡ്രെയിനിൽ ഒരു നിശ്ചിത ബയാസ് വോൾട്ടേജ് VDD കൊടുക്കുന്നു നിങ്ങൾ കറന്റ് സോഴ്സ് I0 സോഴ്സിലേക്ക് പ്രയോഗിച്ചാൽ മാത്രമേ അത് സ്ഥിരമായ അവസ്ഥയിലെത്തുകയുള്ളൂ അവിടെ ID I0 ന് തുല്യമാണ് എന്നിട്ടും ഈ സർക്യൂട്ടിനെ ഫീഡ്ബാക്ക് ഉള്ളതായി കരുതുന്നത് കൂടുതൽ ഉപയോഗപ്രദമാണ് ഫീഡ്ബാക്ക് ട്രാൻസിസ്റ്ററിന് ആന്തരികമാണ് അതായത് സോഴ്സ് നിയന്ത്രിത വശത്തിന്റെ ഭാഗവും നിയന്ത്രിക്കുന്ന വശവും രണ്ടും ആയതിനാലാണ് ഫീഡ്ബാക്ക് അവതരിപ്പിക്കുന്നത് അതിനാൽ കറന്റ് പ്രയോഗിക്കുന്നതിനേക്കാൾ ഇത് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടായി നിങ്ങൾ കരുതുന്നതാണ് നല്ലത് അതാണ് നിങ്ങൾ കറന്റ് സോഴ്സ് സോഴ്സ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നത് കറന്റ് വ്യത്യാസത്തെ ആശ്രയിച്ച് സോഴ്സ് ടെർമിനൽ മുകളിലേക്കോ താഴേയ്ക്കോ പോകുന്നു ഒപ്പം ആ പ്രവർത്തനം സോഴ്സ് വോൾട്ടേജ് മുകളിലേക്കോ താഴേക്കോ പോകുന്നത് VGS നെ മാറ്റുകയും തൽഫലമായി കറന്റ് മാറുകയും ചെയ്യും അതിനാൽ ഈ ലളിതമായ സർക്യൂട്ടിലും ഫീഡ്ബാക്ക് ഉണ്ട് എന്നിരുന്നാലും സാധാരണയായി ഫീഡ്ബാക്കിനായി കുറച്ച് സർക്യൂട്ട് ഉണ്ടെന്നും ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു വയർ വരേണ്ടതുണ്ടെന്നും അത് നമ്മുടെ സാധാരണ സാങ്കൽപ്പിക ഫീഡ്ബാക്കാണ് ഇവിടെ ഫീഡ്ബാക്ക് ട്രാൻസിസ്റ്ററിന് ആന്തരികമാണ് സോഴ്സ് നിയന്ത്രിത വശത്തിന്റെയും നിയന്ത്രിക്കുന്ന വശത്തിന്റെയും ഭാഗം ആയതിനാൽ ഫീഡ്ബാക്ക് നിറവേറ്റുന്നു സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ബയാസ് സോഴ്സ് ഫീഡ്ബാക്ക് ബയാസ് എന്ന് വിളിക്കുന്നു സർക്യൂട്ടിനെ ബയാസ് ചെയ്യുന്നതിനായി വളരെ അധികം ഉപയോഗിക്കുന്ന ഒരു മാർഗമാണിത് ഇത് വളരെ ലളിതവും ധാരാളം ഉപയോഗിക്കപ്പെടുന്നതുമാണ് തുടർന്നുള്ള പാഠങ്ങളിൽ ഇത്തരത്തിലുള്ള ബയാസ് ഉപയോഗിച്ച് ആംപ്ലിഫയറുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഞാൻ മുമ്പ് പല തവണ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പലതരം ബയസ് സർക്യൂട്ടുകളും പലതരം ഫംഗ്ഷനുകളും ഉണ്ടായിരിക്കാം അതായത് ഞങ്ങൾ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ഇൻക്രെമെന്റൽ ചിത്രം ഇപ്പോൾ അവയിൽ ഒരെണ്ണം മാത്രമേ നമുക്കറിയൂ അത് സാധാരണ സോഴ്സ് ആംപ്ലിഫയറാണ് പക്ഷേ സാധാരണയായി ഏതെങ്കിലും ബയസ് സർക്യൂട്ട് ഉപയോഗിച്ച് ഏത് പ്രവർത്തനവും മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും അവയിൽ ചിലത് മറ്റുള്ളവയേക്കാൾ കൂടുതൽ സൌകര്യപ്രദമാണ് അതിനാൽ അവ തിരഞ്ഞെടുക്കപ്പെടും എന്നാൽ നിങ്ങൾക്ക് വൈവിധ്യമാർന്ന പ്രവർത്തനം വൈവിധ്യമാർന്ന ബയസ് സർക്യൂട്ട് ബയസ് സംയോജനം പ്രവർത്തനത്തിന്റെ തിരിച്ചറിവ് എന്നിവ ഉണ്ടായിരിക്കാം ഇതിനാലാണ് സർക്യൂട്ടുകളിൽ ധാരാളം വൈവിധ്യമുള്ളത് ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ഈ കറന്റ് സോഴ്സ് I0 ട്രാൻസിസ്റ്ററിന്റെ സോഴ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു സോഴ്സ് വോൾട്ടേജ് സ്വയം ക്രമീകരിക്കുന്നു സ്ഥിരമായ അവസ്ഥയിൽ ട്രാൻസിസ്റ്ററിലെ പ്രവാഹം I0 ന് തുല്യമാണ് ഈ VGS നമുക്ക് ആവശ്യമായ I0 ലഭിക്കാൻ വേണ്ടി ക്രമീകരിക്കും അതിനാൽ VGS ഒരു I0 വൈദ്യുതധാര വഹിക്കുന്നതിനു വേണ്ടി VT 2I0nCox ആണ് അതിനാൽ ഇവിടെ സോഴ്സ് വോൾട്ടേജ് ഈ നിശ്ചിത വോൾട്ടേജ് VG0 VGS ആണ് ഇത് VG0 VT 2I0nCox ആണ് അതിനാൽ ഒടുവിൽ സോഴ്സ് വോൾട്ടേജ് ശരിയായ വോൾട്ടേജിൽ എത്തുന്നു